MQTT നടപ്പിലാക്കേണ്ട യഥാർത്ഥ സ്റ്റാൻഡേർഡ് എന്താണ് മുഴുവൻ പ്രോട്ടോക്കോളും അനുബന്ധ കമാൻഡുകളും വികസിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നതിൽ നിന്ന് MQTT നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അത് പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ് അതിനാൽ സ്റ്റാൻഡേർഡ് നന്നായി അറിയണം ഇപ്പോൾ യഥാർത്ഥ സ്റ്റാൻഡേർഡിലേക്ക് നോക്കാം സ്റ്റാൻഡേർഡ് ഒയാസിസിൽ നിന്നുള്ളതാണ് നിലവിലെ പതിപ്പ് MQTT 3 1 ആണ് ഈ മാനദണ്ഡത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ പ്രോട്ടോക്കോളിന്റെ വിശദീകരണത്തെക്കുറിച്ച് ഇത് എല്ലാം പറയും പൂർണ്ണ പ്രോട്ടോക്കോൾ വിവരിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച സംഗ്രഹങ്ങളിലൊന്ന് ആണെന്ന് ഞാൻ പറയും അത് യഥാർത്ഥ ഹൈലൈറ്റ് ആണ് ഇത് ഒരു ക്ലയന്റ് സെർവറിന്റെ പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജിങ് പ്രോട്ടോക്കോൾ ആണ് ഇത് വളരെ നന്നായി എഴുതിയതും ലളിതവും രൂപകൽപ്പന ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാനുമായി ഉണ്ടാക്കിയതാണ് മെഷീനിൽ നിന്ന് മെഷീനിൽ ആശയവിനിമയം പോലുള്ള സാഹചര്യങ്ങളിൽ ഈ സ്വഭാവം അനുയോജ്യമാണ് ഇന്റർനെറ്റിൽ ഒരു ചെറിയ കോഡ് ഫുട്പ്രിന്റുകൾ ആവശ്യമാണ് കൂടാതെ നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് വളരെ നല്ലതായിരിക്കണം പ്രോട്ടോക്കോൾ TCPIP ടിസിപി ഐപി അല്ലെങ്കിൽ മറ്റ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകളിലൂടെ പ്രവർത്തിക്കുന്നു അത് ഓർഡേർഡ് ലോസ് ലെസ്സ് ബൈഡൈരക്ഷണൽ കണക്ഷനുകൾ നൽകുന്നു ഇതിന്റെ സവിശേഷതകളിൽ പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജ് പാറ്റേൺ ഉൾപ്പെടുന്നു ഇത് നിരവധി സന്ദേശ വിതരണത്തിനും അപ്ലിക്കേഷനുകളുടെ ഡീകപ്പ്ളിംഗിനും സഹായിക്കുന്നു പേലോഡിന്റെ ഉള്ളടക്കം സന്ദേശത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് മെസ്സേജ് ട്രാൻസ്പോർട് ഡെലിവറി സേവനത്തിന്റെ 3 ഗുണങ്ങൾ നിങ്ങൾക്കിപ്പോൾ നന്നായി അറിയാം നമ്മൾ അതിന്റെ ചില ഡെമോ കണ്ടു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറിൻറെ ശ്രമങ്ങൾക്കനുസൃതമായി സന്ദേശങ്ങൾ കൈമാറുന്നിടത്ത് നഷ്ടം സംഭവിക്കാം ഉദാഹരണത്തിന് ആംബിയന്റ് സെൻസർ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു സെൻസർ വാല്യൂ നഷ്ടപ്പെട്ടാൽ അത് പ്രശ്നമല്ല കണ്ടയുടൻ അറിയിക്കും അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു അന്തരീക്ഷം അളക്കുമ്പോൾ താപനിലയിൽ വലിയ മാറ്റമുണ്ടാകില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല അതിനാൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുക ഒരുതവണയെങ്കിലും സന്ദേശങ്ങൾ എത്തുമെന്ന് ഉറപ്പുനൽകുന്നു പക്ഷേ പകർപ്പുകൾ ഉണ്ടാകാം ഒരു സെൻസർ ഡാറ്റ അടങ്ങിയ ഒന്നിലധികം സന്ദേശങ്ങൾ ശരിയായി സംഭവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഇത് ഒരുതവണയെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രശ്നമില്ല ഒന്നിലധികം സന്ദേശങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നതിനു നിങ്ങൾക്ക് ഒരു മാർഗമുണ്ട് അവിടെ വരുന്ന സന്ദേശങ്ങൾ നീക്കംചെയ്യുന്നതിന് സിസ്റ്റത്തിൽ ഇന്റലിജൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ആർഎഫിന് സന്ദേശം ഉറപ്പുനൽകിയ സ്ഥലത്ത് ഈ ലെവൽ ഉപയോഗിക്കാം ഉദാഹരണത്തിന് പകർപ്പ് അല്ലെങ്കിൽ നഷ്ടമായ സന്ദേശങ്ങൾ തെറ്റായ ചാർജുകൾ പ്രയോഗിക്കുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന ബില്ലിംഗ് സിസ്റ്റങ്ങൾ നിങ്ങളുടെ യൂട്ടിലിറ്റി ബിൽ രണ്ടുതവണ കാണിച്ചാൽ അത് ഇരട്ടി തുക നൽകുന്നു അത് സംഭവിക്കരുത് MQTT ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഉദാഹരണമായി ഇത് യൂട്ടിലിറ്റി ബില്ലുകളും എനർജി മീറ്ററിംഗും ഉപയോഗിക്കുന്നു ഒരു ചെറിയ ട്രാൻസ്പോർട്ട് ഓവർഹെഡും പ്രോട്ടോക്കോൾ എക്സ്ചേഞ്ചുകളും നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കുറയ്ക്കുന്നു അസാധാരണമായ വിച്ഛേദിക്കൽ നടക്കുമ്പോൾ താൽപ്പര്യമുള്ള കക്ഷികളെ അറിയിക്കാനുള്ള സംവിധാനം ഒരു ചെറിയ ട്രാൻസ്പോർട്ട് ഓവർഹെഡും പ്രോട്ടോക്കോൾ എക്സ്ചേഞ്ചുകളും നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കുറയ്ക്കുന്നു അസാധാരണമായ വിച്ഛേദിക്കൽ സംഭവിക്കുമ്പോൾ താൽപ്പര്യമുള്ള കക്ഷികളെ അറിയിക്കാനുള്ള ഒരു സംവിധാനമാണ് ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെന്റ് ഇത് ഒരു നല്ല സംഗ്രഹമാണ് കൂടാതെ പ്രോട്ടോക്കോളിനെക്കുറിച്ച് പറയുന്നു നിങ്ങൾ ഇത് നന്നായി വായിക്കു നമ്മൾ നോക്കുന്ന എല്ലാ സന്ദേശങ്ങളെക്കുറിച്ചും അതിൽ പരാമർശിക്കുന്നു ഉദാഹരണത്തിന് ഉള്ളടക്ക പട്ടിക നോക്കാം എംക്യുടിടിയുടെ ഓർഗനൈസേഷൻ ടെർമോളജി ഡാറ്റാ പ്രാതിനിധ്യങ്ങൾ പാക്കറ്റ് വിവരങ്ങൾ എംക്യുടിടി കൺട്രോൾ പാക്കറ്റ് വിവരങ്ങൾ തുടർന്ന് എംക്യുടിടി കൺട്രോൾ പാക്കറ്റുകൾ മുതലായ എല്ലാം അതിലുണ്ട് തുടർന്ന് പബ്ലിഷ് വിഷയങ്ങളിലേക്ക് സബ്സ്ക്രൈബുചെയ്യുക വിഷയങ്ങളിൽ നിന്ന് സബ്സ്ക്രൈബുചെയ്യുക അൺസബ്സ്ക്രൈബുചെയ്യുക പിംഗ് അഭ്യർത്ഥനയും പ്രതികരണവും സേവനത്തിന്റെ ഗുണനിലവാരം 0 1 2എന്നീ വിഷയ നാമങ്ങളും വിഷയവും ഫിൽട്ടറുകളും കൈകാര്യം ചെയ്യൽ പിശകുകളും ക്ലയന്റുകളുടെ പ്രാമാണീകരണവും സെർവർ ക്ലയന്റുകളുടെ അംഗീകാരം ക്ലയന്റ് സെർവറിന്റെ പ്രാമാണീകരണം ഇവയെല്ലാം ഈ 5 വിഭാഗത്തിൽ പെടുന്നു അത് സുരക്ഷയുമായി ബന്ധപ്പെട്ടവയാണ് നിങ്ങൾക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയും ഈ സുരക്ഷാ ഭാഗം ശരിയായി കൈകാര്യം ചെയ്യുന്നത് മിക്കവാറും അറിയാം കാരണം ഇത് പ്രോട്ടോക്കോൾ ആയതിനാൽ എനിക്ക് നിങ്ങൾക്ക് നിരവധി ഡെമോ കാണിക്കാൻ കഴിയും നിങ്ങൾ സുരക്ഷയ്ക്കായി മതിയായ സമയം ചെലവഴിക്കണം IoT സുരക്ഷ ശരിയായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് വലിയ വിജയമാകുകയുള്ളൂ എനർജി ഒരു വലിയ ഘടകം ആണ് സുരക്ഷ മറ്റൊരു വലിയ കാര്യമാണ് ഈ രണ്ട് ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട് മാറ്റങ്ങൾ വരുത്തണം IoT സിസ്റ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ സുരക്ഷ നേടാനാകുമെന്ന് ചുറ്റും നോക്കാൻ ആരംഭിക്കുക അതിനാൽ സുരക്ഷയില്ലാത്ത IoT നിങ്ങളെ വളരെ ദൂരെയെത്തിക്കില്ല പവർ ഇല്ലാത്തതും നിങ്ങളെ വളരെ ദൂരെയെത്തിക്കില്ല അനലിറ്റിക്സും കൂടാതെ ശരിയായ വിവരങ്ങളും ഇല്ലാതെ ഐഒടി വിജയകരം ആകില്ല അതിനാൽ ജനറേറ്റുചെയ്യുന്ന എല്ലാ ഡാറ്റയും പരിപാലിക്കാൻ നിങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റ് ആവശ്യമാണ് നിരവധി ഗേറ്റ്വേകളിൽ ഡാറ്റ കൈകാര്യം ചെയ്യൽ സംഭവിക്കേണ്ടതുണ്ട് മാത്രമല്ല സുരക്ഷിതമായ ഡാറ്റ ആശയവിനിമയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം അതിനാൽ നിങ്ങൾക്ക് പത്തുവർഷത്തെ ആയുസ്സ് ആവശ്യമുള്ള ഒരു വലിയ പില്ലർ ആണ് സുരക്ഷ അതിനാൽ നിങ്ങൾക്ക് എനർജി മാനേജ്മെന്റ് പവർ മാനേജുമെന്റും ആവശ്യമാണ് അതിനാൽ ഐഒടിയെ മികച്ച വിജയമാക്കുന്നതിന് ഈ ഘടകങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ ഈ അധ്യായം 5 മനസിലാക്കാൻ വേണ്ടത്ര സമയം ചെലവഴിക്കുക ഞങ്ങളുടെ പ്രോജക്ട് സ്റ്റാഫ് മിസ് തേജസ്വിനി മതിയായ സമയം ചെലവഴിച്ചു കുറച്ച് ചെറിയ ഡെമോ നിർമ്മിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും കൂടാതെ ഈ കാര്യങ്ങളുടെ ഡെമോകൾ ഞങ്ങൾ ഇപ്പോൾ കാണിക്കും ഞങ്ങൾ അത് പൂർത്തിയാക്കും പക്ഷേ മുഴുവൻ പ്രശ്നവും ഇത് പരിഹരിക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇത് വളരെ പ്രധാനമാണ് അതിനാൽ അഞ്ചാം അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കുക 6 ാം അധ്യായം വെബ് സോക്കറ്റാണ് ഇത് തത്സമയ പരിതസ്ഥിതികളിൽ MQTT ഉപയോഗവുമായി ബന്ധപ്പെട്ട് തൽസമയ ദ്വിദിശ ഡാറ്റാ കൈമാറ്റത്തെക്കുറിച്ചാണ് 6 ാം അധ്യായം നിങ്ങൾ മനസിലാക്കണം സമയം അനുവദിക്കുകയാണെങ്കിൽ അവിടെ സമയം ചെലവഴിക്കാൻ ശ്രമിക്കും ബാക്കിയുള്ളവയെല്ലാം എളുപ്പമാണ് സ്ഥിരീകരണവും സ്ഥിരീകരണ ലക്ഷ്യങ്ങളും MQTT സെർവറും MQTT ക്ലയന്റും മറ്റും സുരക്ഷാ അധ്യായം നിങ്ങൾ വളരെ വിശദമായി മനസിലാക്കേണ്ടതാണ് ചെറിയ കോഡ് ഫുട്പ്രിന്റുകൾ ആവശ്യമാണെന്നും നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് പ്രീമിയത്തിലാണെന്നും അതിൽ പറയുന്നു നിങ്ങൾ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിക്കണം എന്തുകൊണ്ടാണ് MQTT യഥാർത്ഥത്തിൽ ഇവിടെ ലിസ്റ്റുചെയ്തിരിക്കുന്നതെന്നും ഇത് TCP IP യിൽ പ്രവർത്തിക്കുന്നുവെന്നും ഇത് പറയുന്നു വെബിൽ ഞാൻ കണ്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ചില നമ്പറുകൾ കാണിക്കും ഞാൻ http ന്റെ ഒരു താരതമ്യം നടത്താം നമുക്ക് ഒരു പുതിയ പേജ് എടുക്കുന്നതിലൂടെ ഇത് സമഗ്രമായി മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഒരു പുതിയ പേജ് എടുത്ത് MQTT ഉപയോഗിച്ച് ആരംഭിക്കാം അത് താരതമ്യമാണ് ഞാൻ ഒരു വശത്ത് http ഉം മറുവശത്ത് MQTT ഉം ഇടും ഇത് പബ് സൈഡ് ആണ് ഇത് റെപ്രെസെന്റഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ടു പാരഡിഗം നിങ്ങൾക്ക് ഒരൊറ്റ ഡാറ്റ ആവശ്യമാണ് ഒരു നല്ല താരതമ്യമുണ്ട് നിങ്ങൾക്ക് 302 ബൈറ്റുകൾ ആവശ്യമാണ് ഇത് വെബിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരമാണ് എന്നാൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് സ്വയം കണ്ടെത്താൻ ശ്രമിക്കാം വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്ക് 68 ബൈറ്റുകൾ ആവശ്യമാണ് ഒരൊറ്റ പീസ് ഡാറ്റ അയയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇത് 320 ബൈറ്റുകളാണ് ഇവിടെ ഇത് വെറും 47 ബൈറ്റുകളാണ് നിങ്ങൾക്ക് 100 പീസ് ഡാറ്റ ലഭിക്കണമെങ്കിൽ ഇത് 12600 ബൈറ്റുകളാണ് ഇത് 2445 ബൈറ്റുകളാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലെ തുടരാം MQTT ഒരു വിജയിയാണ് ഇത് യഥാർത്ഥത്തിൽ എഴുതിയതിനെ ന്യായീകരിക്കുന്നു പക്ഷേ നിങ്ങൾ സെൻസർ നെറ്റ്വർക്കുകളും സെൻസർ ഡാറ്റയും നോക്കുകയും MQTT എന്തുകൊണ്ടെന്ന് ചോദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ വളരെ ചെറിയ ഡാറ്റ പാക്കറ്റ് വലുപ്പം ആണ് കാരണം എല്ലാം ബൈനറി രൂപത്തിലാണ് അയച്ചിരിക്കുന്നത് മാത്രമല്ല http പ്രോട്ടോക്കോളുമായി താരതമ്യപ്പെടുത്താനേ കഴിയില്ല സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ഓർമ്മിക്കുക http ലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് https ഉണ്ട് MQTT ലോകത്ത് നിങ്ങൾക്ക് സമാനമായ എന്തെങ്കിലും ആവശ്യമാണ് അതിനാൽ എംക്യുടിടിയെക്കുറിച്ചുള്ള അധ്യായം വളരെ നിർണായകമാണ് ഈ പ്രത്യേകതയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ സുരക്ഷ ചേർക്കാമെന്ന് കണ്ടെത്തുക അതിനാൽ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്നാൽ അതേ സമയം കുറയ്ക്കൽ പേലോഡുകളിൽ കുറവു വരുത്തുമെന്ന് ഞാൻ പറയും ഇത് സെൻസർ നെറ്റ്വർക്കുകൾക്കായി വളരെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതിനുള്ള സൌകര്യം നൽകുന്നു ലിങ്കുകളുള്ള ലോ ബാൻഡിനായി ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു കുറഞ്ഞ ഫുട്പ്രിന്റുകൾക്കായി ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഐഒടി ലോകത്ത് ഇത് പ്രധാനമായും ചില സെൻസിംഗും ചില കമ്പ്യൂട്ടിംഗ് ആശയവിനിമയവും ചിലത് വളരെ നിർദ്ദിഷ്ട പ്രവർത്തനവും നിയന്ത്രിക്കുന്നു കാരണം അതിന് പബ്ലിഷ് സബ്സ്ക്രൈബ് മാതൃക പ്രസിദ്ധീകരിക്കുന്നു ടിസിപി ഉപയോഗിക്കുന്നതിനാൽ https കാര്യത്തിൽ ബ്രോക്കറിലൂടെ കടന്നുപോകുന്ന പബ്ലിഷ് സബ്സ്ക്രൈബേർ തമ്മിലുള്ള സമ്പൂർണ്ണ ഇടപാട് വലിയ നേട്ടമാണ് അതിനാൽ ഉപയോഗപ്രദമായേക്കാവുന്ന മറ്റ് പ്രോട്ടോക്കോളുകൾക്ക് വിരുദ്ധമായി MQTT തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വഹിക്കേണ്ടതുണ്ട് റെസ്റ്റ് ആർക്കിടെക്ചർ എംക്യുടിടി പബ് സബ് ആർക്കിടെക്ചർ മുതലായവയുടെ കാര്യത്തിൽ ഇത് ഒരു മനോഹരമായ ഡോക്യുമെന്റ് പോലെയാണെന്ന് ഞാൻ പറയും ഓരോ തവണയും ഒരു പേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രൌസറിലേക്ക് ഡൌൺലോഡ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ഒരു മനോഹരമായ ഡോക്യുമെന്റ് പോലെ നിർമ്മിക്കുന്നത് നിങ്ങൾ കാണും ഇത് ഒരു ഡോക്യുമെന്റ് കേന്ദ്രീകൃത സിസ്റ്റം പോലെയാണ് ഒരു റിക്വസ്റ്റ് ഉണ്ട് തുടർന്ന് http കേസിൽ ആണെങ്കിൽ ഒരു റസ്പോൺസും ഉണ്ട് എന്നാൽ ഇവിടെ ചില സെൻസർ ഡാറ്റകൾക്കായി തിരയുന്നു അതിനാൽ ഇത് കൂടുതൽ ഡാറ്റാ കേന്ദ്രീകൃതമാണ് അക്കങ്ങളെക്കുറിച്ച് സെൻസിംഗിനെക്കുറിച്ച് ഡാറ്റയെക്കുറിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പ്രോട്ടോക്കോളും അനുസരിച്ച് അത് ശരിയാണ് ഇത് ഡാറ്റാ കേന്ദ്രീകൃതമാണ് മാത്രമല്ല ഇത് പബ്ലിഷ് സബ്സ്ക്രൈബ് ഉപയോഗിക്കുന്നു രണ്ടാമത്തെ കാര്യം http ലോകത്ത് ഉപയോഗിക്കുന്ന ചില ക്രിയകൾ നോക്കിയാൽ നിങ്ങൾക്ക് get post ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് delete put തുടങ്ങിയവയും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വളരെ ലളിതമായ pub sub unsub ഉണ്ട് വളരെ ലളിതമായ പ്രോട്ടോക്കോൾ പഠിക്കാൻ എളുപ്പമാണ് നിങ്ങൾ മെസ്സേജിന്റെ വലുപ്പം എടുക്കുകയാണെങ്കിൽ ഇത് വളരെ വലുതാണ് ഇത് രണ്ട് ബൈറ്റുകൾ വരെ ചെറുതായിരിക്കാം നിങ്ങൾ ഡോക്യുമെന്റേഷനിലൂടെ പോയാൽ ഹെഡർ വിശദാംശങ്ങൾ കാണും സേവനത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ് എങ്ങനെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 3 ലെവലുകൾ ഉണ്ട് നിങ്ങൾ ഡാറ്റ വിതരണം നോക്കുകയാണെങ്കിൽ ഡാറ്റ കൂടുതലും വൺ ടു വൺ ആണ് ഡീകപ്ളിംഗ് കാരണം നിങ്ങൾക്ക് വൺ ടു മെനി ചെയ്യാൻ കഴിയും അതിനാൽ എന്തുകൊണ്ടാണ് MQTT ഇവ ചില സൂപ്പർ താരതമ്യങ്ങൾ എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടായേക്കാവുന്ന മറ്റൊരു ചോദ്യം നിങ്ങൾ ഇപ്പോൾ ചോദിച്ചേക്കാം പക്ഷേ MQTT നെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യക്തമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ സെഷനുകൾ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അറ്റാച്ചുമെന്റ് അടിസ്ഥാനപരമായി തിരിച്ചറിയുക ഇത് സാധാരണ ഡോക്യൂമെന്റിൽ നിന്ന് പകർത്തിയതാണ് അതിനാൽ സെഷൻ അറ്റാച്ചുകൾ നോക്കുകയും ഒരു ക്ലയന്റിന്റെ അറ്റാച്ചുമെന്റ് തിരിച്ചറിയുകയും വേണം ഒരു സെർവറിലേക്ക് ക്ലയന്റും സെർവറും തമ്മിലുള്ള എല്ലാ ആശയവിനിമയങ്ങളും സെഷന്റെ ഭാഗമായി നടക്കുന്നു അത് വളരെ പ്രധാനമാണ് നിങ്ങൾക്കും പബ്ലിഷ് നോക്കാൻ താൽപ്പര്യപ്പെടാം ഞങ്ങൾ ഇത് മുമ്പ് ചെയ്തത് വിശദീകരിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല സബ്സ്ക്രൈബുചെയ്യുക സന്ദേശം നിലനിർത്തുക അതിനാൽ ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവയെല്ലാം പ്രോട്ടോക്കോളിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും ഒരു സെർവറിലേക്ക് ക്ലയന്റും സെർവറും തമ്മിലുള്ള എല്ലാ ആശയവിനിമയങ്ങളും സെഷന്റെ ഭാഗമായി നടക്കുന്നു അത് വളരെ പ്രധാനമാണ് നിങ്ങൾക്കും പബ്ലിഷ് നോക്കാൻ താൽപ്പര്യപ്പെടാം ഞങ്ങൾ ഇത് മുമ്പ് ചെയ്തത് വിശദീകരിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല സബ്സ്ക്രൈബുചെയ്യുക സന്ദേശം നിലനിർത്തുക അതിനാൽ ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നോക്കൂ കാരണം അവയെല്ലാം പ്രോട്ടോക്കോളിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും തുടർന്ന് സന്ദേശങ്ങളുടെ എണ്ണം ഉണ്ട് MQTT കളുടെ സന്ദേശങ്ങൾ കാണാൻ മറക്കരുത് കണക്റ്റുചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് connack ഉണ്ട് ഞങ്ങൾ ഇത് ഇതിനകം കണ്ടു പക്ഷേ നിങ്ങൾ ഇതെല്ലാം പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് പ്രോട്ടോക്കോൾ നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ അനുവദിക്കും അപ്പോൾ ഒരു പാക്കറ്റ് ഫോർമാറ്റ് ഉണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരയാൻ കഴിയുന്ന ഫോർമാറ്റ് ഇത് ഓരോരുത്തരുടെയും സന്ദേശ ഫോർമാറ്റുകളാണ് അതിനാൽ ഒരു സന്ദേശ ഫോർമാറ്റ് ഉണ്ടാകും അവിടെ എല്ലാത്തരം ഫീൽഡുകളും ഉണ്ടായിരിക്കും ആ കാര്യം അന്വേഷിക്കാൻ ഞാൻ അവിടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സുരക്ഷയിലേക്ക് നീങ്ങുന്നതിനുമുമ്പ് ഞാൻ കുറച്ച് ഡെമോ കാണിച്ചുതരുന്നു എന്നിരുന്നാലും MQTT എങ്ങനെ മികച്ചതാണെന്നും അതിന്റെ കഴിവുകളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് ചിലത് പറയാം നമുക്ക് ഒരു റാസ്ബെറി പൈ റൈറ്റ് അല്ലെങ്കിൽ കോഡ് റെയ്ഡ് ബോർഡ് അല്ലെങ്കിൽ ബീഗിൾ ബോൺ ബ്ലാക്ക് ആർഡ്യൂസ് ബോർഡുകൾ ബീഗിൾ ബോർഡ് ബീഗിൾ ബോൺ ബ്ലാക്ക് റാസ്ബെറി പൈ എന്നിവ പോലുള്ള ബോർഡുകൾ എടുക്കാം വളരെ ചെറിയ ഹാർഡ്വെയറുകളിൽ MQTT എങ്ങനെ പ്രവർത്തിക്കും കാരണം നിങ്ങൾ ചില പരിതസ്ഥിതികൾ അനുഭവിക്കുന്ന സെൻസറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കൂടാതെ അവർ MQTT ഉപയോഗിച്ച് ഡാറ്റ പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്ക് ഒരു ചെറിയ അൾട്രാ ലോ പവർ ഇന്റർഫേസ് ഉണ്ട് അത് സിഗ്ബി ആകാം അത് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ അവയിലൊന്നാകാം ഇത് മിക്കവാറും സിഗ്ബീ ആണ് ചെറിയ സെൻസർ നോഡുകൾ നിർമ്മിക്കുന്നതിന് സിഗ്ബി വളരെ ജനപ്രിയമാണ് മാത്രമല്ല ഇത് വളരെ പ്രചാരമുള്ള പ്രോട്ടോക്കോൾ ആണ് അതിനാൽ നിങ്ങൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്റ്റാക്ക് എങ്ങനെ പ്രവർത്തിക്കും ഞങ്ങൾ ചർച്ച ചെയ്ത ഈ കമാൻഡുകൾക്കൊപ്പം നിങ്ങൾക്ക് ഒരു വലിയ ആപ്ലിക്കേഷൻ സ്റ്റാക്ക് MQTT സ്റ്റാക്ക് ഉണ്ട് വ്യക്തമായും അത് പ്രവർത്തിക്കില്ല അതിനാൽ ഒരേ പ്രോട്ടോക്കോളിന്റെ മറ്റൊരു തരം ചെറിയ വേരിയന്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ MQTT S എന്ന് വിളിക്കുന്നു MQTT S ന് ഒരു സവിശേഷതയുണ്ട് ഇത് എംബെഡ്ഡ്ഡ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്നു എന്താണ് MQTT S MQTT സെൻസർ നെറ്റ്വർക്കുകൾക്കായി ഉണ്ടാക്കുമ്പോൾ ഇതിനെ MQTT S എന്ന് വിളിക്കുന്നു ഇത് സിഗ്ബിക്ക് അനുരൂപമാക്കിയിരിക്കുന്നു ഇത് 6 ലോപാൻ ഉപയോഗിക്കുന്നു ഇതിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കുറഞ്ഞ പവർ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുകൾക്കുള്ള IPv6 ആണ് 6 LowPan നിയന്ത്രിത പ്ലാറ്റ്ഫോമുകൾക്കായുള്ള IPv6 അഡാപ്റ്റേഷനാണിത് നിങ്ങൾക്ക് TCP ഉപയോഗിക്കേണ്ടതില്ല നിങ്ങൾക്ക് UDP ഉപയോഗിക്കാം പരമ്പരാഗതമായി MQTT TCP ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഇത് യുഡിപിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇത് കുറഞ്ഞ ബാൻഡ്വിഡ്ത്ത് വയർലെസ് സെൻസർ നെറ്റ്വർക്കുകൾക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഫ്രെയിം സൈസ് ചെറുതാണ് ഇത് സാധാരണ MQTT ബ്രോക്കർമാരുമായി പൊരുത്തപ്പെടുന്നു നിങ്ങൾ ഒരു നല്ല സിസ്റ്റം നിർമ്മിക്കണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ MQTT S എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം എന്നതുമായി ബന്ധപ്പെട്ട ചിത്രം വരയ്ക്കാനും കാണിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും നിങ്ങൾക്കായി ഒരു ചിത്രം വേഗത്തിൽ വരയ്ക്കാം നിങ്ങൾക്ക് MQTT S ക്ലയന്റ് ഉണ്ട് ഞാൻ ഇതിനുള്ളിൽ ഇടട്ടെ അതിനാൽ MQTT S ഗേറ്റ് വഴി ഇത് ചെയ്യാനുള്ള ശരിയായ മാർഗമാണ് ഈ ഗേറ്റ്വേ ഇപ്പോൾ MQTT ബ്രോക്കറുമായി സംസാരിക്കും ഈ ഗേറ്റ്വേ യഥാർത്ഥത്തിൽ സിസ്റ്റത്തിന്റെ ഭാഗമാകാം നിങ്ങൾക്ക് ഈ ഹാർഡ്വെയറിനുള്ളിൽ തന്നെ ഈ ഗേറ്റ്വേ ഉപയോഗിക്കാം ഇത് ഒരു MQTT തരത്തിലുള്ള ബ്രോക്കർ ഹാർഡ്വെയറിനെക്കുറിച്ച് ഞാൻ പറയും ഞാൻ ഒരു റാസ്ബെറി പൈ പോലുള്ള സിസ്റ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ബീഗിൾ ബോൺ അല്ലെങ്കിൽ ഓഡ്രോയിഡ് സിസ്റ്റത്തെ പരാമർശിക്കുന്നുണ്ടാകാം അവ ഇപ്പോഴും കുറഞ്ഞ എനർജി ഉള്ളവയാണ് എന്നാൽ ഇതുപോലുള്ള വളരെ ചെറിയ ഉപകരണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയ്ക്ക് മികച്ച പ്രവർത്തനമുണ്ട് നിങ്ങൾക്ക് ഈ MQTT ക്ലയന്റുകൾ ഉണ്ടാകാം അവയെല്ലാം ഈ നല്ല ഗേറ്റ്വേയിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇത് ഇപ്പോൾ യുഡിപി പ്രവർത്തിപ്പിക്കുന്നു അവർക്ക് യുഡിപി പ്രവർത്തിപ്പിക്കാൻ കഴിയും ഈ ലയെർ വരെ അവർ യഥാർത്ഥത്തിൽ 6 ലോ പാൻ പ്രവർത്തിപ്പിക്കും കുറഞ്ഞ പവർ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുകൾക്കാണ് IPV6 6 ലോ പാൻ സിഗ്ബിയിൽ നന്നായി പ്രവർത്തിക്കുന്നു അതിനാൽ അത് സിഗ്ബി MQTT ആണ് ഇത് ടിസിപി ആകാം മറ്റ് വഴികളും ഉണ്ട് ഒരു ഗേറ്റ്വേയിലൂടെ കടന്നുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് MQTT S ഫോർവേർഡറും ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് MQTT S ഫോർവേർഡറും ഉപയോഗിക്കാൻ മറ്റൊരു സാധ്യതയുണ്ട് MQTT S ക്ലയന്റുകൾക്ക് യുഡിപിയിൽ കണക്റ്റുചെയ്യാനും ഈ ഫോർവേർഡറുമായി ബന്ധിപ്പിക്കാനും കഴിയും ഫോർവേർഡർ ഒന്നും മാറ്റില്ല അത് യുഡിപിയിലെ പാക്കറ്റ് ബ്രോക്കറിലേക്ക് കൈമാറും മാത്രമല്ല ബ്രോക്കർ അത് മാറ്റുകയും ഒരു നിശ്ചിത വിവരങ്ങൾ പരിപാലിക്കുകയും ചെയ്യും ഇത് ഒരു ലളിതമായ ഫോർവേഡിംഗ് സിസ്റ്റം മാത്രമാണ് അതിനാൽ ഇത് എല്ലായിടത്തും യുഡിപി ആയിരിക്കണം മാത്രമല്ല അത് ഒരു ക്ലയൻറ് കണക്ഷനായി പരിവർത്തനം ചെയ്യുന്നു അതിനാൽ ഒന്നുകിൽ അത് ഒരു ഫോർവേർഡിലൂടെ കടന്നുപോകാൻ കഴിയും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഫോർവേർഡർ ആവശ്യമായി വരുന്നത് എനിക്ക് നേരിട്ട് ബ്രോക്കറിലേക്ക് അയയ്ക്കാൻ കഴിയും തീർച്ചയായും യുഡിപി വഴി ബ്രോക്കറിലേക്ക് നേരിട്ട് അയയ്ക്കാനും കഴിയും അതിനാൽ നിരവധി സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ശ്രമിക്കാം അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സ്വന്തം രംഗം പരീക്ഷിക്കുന്നതിൽ നിന്ന് ആരും നിങ്ങളെ തടയുന്നില്ല നിങ്ങൾക്ക് ചില സ്ക്രിപ്റ്റുകൾ ക്രമീകരിക്കാനും നിങ്ങൾക്ക് ഈ കാര്യം നന്നായി ചെയ്യാനും കഴിയും അതിനാൽ ബ്രോക്കർമാരുണ്ട് ഒരു ഗേറ്റ്വേ ഉണ്ട് MQTT S ന്റെ പ്രത്യേകത എന്താണ് വളരെ ചെറിയ സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ MQTT S പ്രോട്ടോക്കോൾ യഥാർത്ഥത്തിൽ ഈ ഗേറ്റ്വേ കണ്ടെത്തേണ്ടതുണ്ട് എവിടെയാണ് ചെയ്യേണ്ടത് അതിനർത്ഥം ഗേറ്റ്വേ കണ്ടെത്തൽ പ്രധാനമാണെന്ന് ഒന്നുകിൽ ഗേറ്റ്വേയ്ക്ക് ആനുകാലികമായി പ്രക്ഷേപണം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ക്ലയന്റുകൾ തിരയേണ്ടതുണ്ട് ഒന്നുകിൽ ക്ലയന്റുകൾ തിരയണം അല്ലെങ്കിൽ ഗേറ്റ്വേ ഇടയ്ക്കിടെ പ്രക്ഷേപണം ചെയ്യണം അതിനാൽ ഇത് ഞങ്ങളെ വളരെ ലളിതമായ കാര്യങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു ഗേറ്റ്വേ അഡ്വെർടൈസ്മെന്റുകൾ നിലവിലുണ്ട് അതിനാൽ ഇത് ഗേറ്റ്വേയിൽ നിന്ന് വരുന്നു ഗേറ്റ്വേ യഥാർത്ഥത്തിൽ ഈ അഡ്വെർടൈസ്മെന്റുകൾ നൽകുന്നു ഇതാണ് MQTT S വളരെ പ്രധാനപ്പെട്ട MQTT S ഗേറ്റ്വേ ആണ് ക്ലയന്റ് ശ്രമിക്കുകയാണെങ്കിൽ ഗേറ്റ്വേ തിരയുക എന്നതാണ് ചെയ്യേണ്ടത് ഗേറ്റ്വേ കുറച്ചുകൂടി ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് MQTT S ക്ലയന്റ് സെർച്ച് ഗേറ്റ്വേയ്ക്ക് മറുപടിയായി ക്ലയൻറ് ഇത് അയയ്ക്കുന്നു ഈ ഗേറ്റ്വേയ്ക്ക് യഥാർത്ഥത്തിൽ GW Info എന്നറിയപ്പെടുന്നവ തിരികെ നൽകാനാകും അതിനാൽ ഇപ്പോൾ ഇത് പൂർത്തിയാക്കുന്നു ഗേറ്റ്വേ അഡ്വെർടൈസ്മെന്റുകളുടെ ആനുകാലിക പ്രക്ഷേപണം നിങ്ങൾക്ക് നടത്താം എങ്ങനെയെങ്കിലും MQTT S ക്ലയന്റിന് ആ ആനുകാലിക അഡ്വെർടൈസ്മെന്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് ഒരു തിരയൽ ഗേറ്റ്വേ നൽകാനും കഴിയും അതിനായി ഗേറ്റ്വേയ്ക്ക് GW Info യു മായി പ്രതികരിക്കാൻ കഴിയും അതാണ് പ്രധാനമായും ഈ കാര്യത്തിന്റെ അർത്ഥം ഈ ഗേറ്റ്വേകളെക്കുറിച്ച് നല്ല ചിലത് ഉണ്ട് ഈ MQTT S ഗേറ്റ്വേകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് അവയ്ക്ക് നിരവധി സെൻസർ നോഡുകളിൽ നിന്നും വരുന്ന കണക്ഷൻ ഡാറ്റ ഉണ്ടായിരിക്കും കാരണം ഇപ്പോൾ നിങ്ങൾ ഡാറ്റ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന നൂറുകണക്കിന് സെൻസറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് MQTT S ക്ലയന്റുകൾക്ക് ഒന്നിലധികം ഗേറ്റ്വേകളിലേക്ക് കണക്റ്റുചെയ്യാൻ കഴിയുന്നതിനാൽ ലോഡ് ബാലൻസിംഗ് സാധ്യമാണ് ഇത് മറ്റൊരു പ്രധാന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു അന്തിമ കാര്യമുണ്ട് ഈ ഗേറ്റ്വേ രണ്ട് മോഡുകളിൽ പ്രവർത്തിക്കുന്നു തുടർന്ന് ഞങ്ങൾ MQTT S ഗേറ്റ്വേയിൽ വീണ്ടും എഴുതുന്നു ഇത് MQTT ബ്രോക്കറുമായി ബന്ധിപ്പിക്കുന്നു ഈ MQTT S ന് MQTT ക്ലയന്റുകളിൽ നിന്ന് നിരവധി കണക്ഷനുകൾ ലഭിക്കുന്നു ഇത് ക്ലയന്റ് 1 ക്ലയന്റ് 2 എന്നിങ്ങനെയായിരിക്കും അതിനാൽ ഞാൻ ഇവിടെ അടയാളം ഇടട്ടെ മറ്റൊന്ന് ഇവിടെ നിങ്ങൾക്ക് ഇത് രണ്ട് വഴികളിലൂടെ ചെയ്യാൻ കഴിയും അടിസ്ഥാനപരമായി കണക്റ്റുചെയ്യുന്ന ഓരോ ക്ലയന്റുമായി നിങ്ങൾ സെർവറും ബ്രോക്കറും തമ്മിൽ ഒരു കണക്ഷൻ സൃഷ്ടിക്കുന്നു ഒരു ക്ലയന്റ് കണക്റ്റുചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാകും n ക്ലയന്റുകൾ ബന്ധിപ്പിക്കുന്നെങ്കിൽ MQTT കളിൽ നിന്ന് ബ്രോക്കറിലേക്ക് n കണക്ഷനുകൾ ഉണ്ടാകും ഇതിനെ ട്രാൻസ്പെരന്റ് മോഡ് എന്ന് വിളിക്കുന്നു മറ്റൊരു മോഡ് ഉണ്ട് അതിനെ അഗ്രഗേറ്റഡ് മോഡ് എന്ന് വിളിക്കുന്നു ഞാൻ MQTT S ഗേറ്റ്വേയും ഒന്നിലധികം ക്ലയന്റുകളും ബന്ധിപ്പിക്കും നിങ്ങൾക്ക് MQTT ബ്രോക്കറുമായി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം ഇതിനെ അഗ്രഗേറ്റഡ് മോഡ് എന്ന് വിളിക്കുന്നു അതാണ് പ്രധാന കാര്യം ഒറിജിനൽ MQTT പ്രോട്ടോക്കോൾ ഓരോ ടോപിക്കിനും പറയുന്നു ടോപ്പിക്കും സന്ദേശവും MQTT ൽ നൽകിയിരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതെന്താണ് ഒരു ഐഡി ഉപയോഗിച്ച് ഒരു തവണ മാത്രമേ നിങ്ങൾ വിഷയം അയയ്ക്കൂ തുടർന്ന് നിങ്ങൾ ഐഡി ഉപയോഗിക്കാൻ ആരംഭിക്കുക ഇനി വിഷയം ഉപയോഗിക്കരുത് സന്ദേശ വിഷയം പറയരുത് വിഷയ ഐഡി ഉപയോഗിച്ച് ഡാറ്റ പ്രസിദ്ധീകരിക്കുകയോ ഡാറ്റ സബ്സ്ക്രൈബുചെയ്യുകയോ ചെയ്യുക ഇത് സെൻസർ നെറ്റ്വർക്കുകൾക്കും നിയന്ത്രിത പരിതസ്ഥിതികൾക്കുമായി നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന വ്യക്തമായ സാഹചര്യമാണ് അതാണ് MQTT S പ്രോട്ടോക്കോളിന്റെ പ്രധാന സവിശേഷത ഈ വിഷയ ഐഡി ഒരുതവണ സുഗമമാക്കുന്നതിനും ഈ ടോപ്പിക്കുകൾ വീണ്ടും ഉപയോഗിക്കുന്നത് തുടരുന്നതിനും ഒരു നിബന്ധനയുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് നീണ്ട ടോപ്പിക്കുകൾ ഉണ്ട് തുടർന്ന് ഒരു ഹ്രസ്വ ടോപ്പിക്കുകളുമുണ്ട് നിങ്ങൾക്ക് രണ്ടും ഉപയോഗിക്കാം അതുപോലെ ഐഡികൾ ദൈർഘ്യമേറിയ ഐഡി അല്ലെങ്കിൽ ഹ്രസ്വ ഐഡി ആകാം ഐഡികൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയും ടോപ്പിക്കുകൾ പ്ലസ് സന്ദേശത്തിനുപകരം സന്ദേശ ടോപ്പിക്കു ഐഡി പ്ലസ് സന്ദേശവും സുഗമമാക്കുന്നതിന് രജിസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം സന്ദേശങ്ങളെ MQTT S പിന്തുണയ്ക്കുന്നു ഒരു ക്ലയന്റ് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനാണിത് ഇത് ബാൻഡ്വിഡ്ത്ത് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ തിരികെ പോയി MQTT ഒയാസിസ് സ്റ്റാൻഡേർഡ് നൽകിയ യഥാർത്ഥ സംഗ്രഹം നോക്കുക അതിൽ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു അതിനാൽ ഇത് ഒരു MQTT യുടെ പ്രധാന പോയിന്റാണ് ഇപ്പോൾ അവസാനമായി MQTT യുടെ സുരക്ഷാ വശങ്ങൾ മനസിലാക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ തീർച്ചയായും ഞങ്ങൾ MQTT ലെ സുരക്ഷയെക്കുറിച്ച് ഡെമോ ചെയ്യും പക്ഷേ ഞങ്ങൾ ഡെമോകളിലേക്ക് മാറുന്നതിന് മുമ്പ് നിങ്ങൾ OpenSSL ലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു OpenSSL org നിങ്ങൾ സന്ദർശിക്കണം ഇത് ട്രാൻസ്പോർട്ട് ലെയർ സുരക്ഷയിലേക്ക് നയിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു ടിഎൽഎസ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം ട്രാൻസ്പോർട്ട് ലെയർ സുരക്ഷ ഒരു MQTT ക്ലയന്റും ബ്രോക്കറും തമ്മിൽ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ആശയവിനിമയം നടത്താൻ നിങ്ങളെ അനുവദിക്കുന്ന രണ്ട് പ്രോട്ടോക്കോളുകൾ ഇവയാണ് MQTT ഉള്ള ഒരു ആപ്ലിക്കേഷൻ ലെയർ എടുക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും സുരക്ഷിതമായ രീതി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് സെഷൻ ലെയർ ഉണ്ട് അതിന് ഒരു സെഷൻ കീ ആവശ്യമാണ് തുടർന്ന് നിങ്ങൾക്ക് ടിസിപി അല്ലെങ്കിൽ യുഡിപി പോലുള്ള ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട് നിങ്ങൾ പ്രധാനമായും ടിസിപിയും യുഡിപിയും സുരക്ഷിതമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് അത് പ്രധാനമായും ട്രാൻസ്പോർട്ട് ലെയർ സുരക്ഷയും ടിസിപി ടിഎൽഎസും യുഡിപി ഡിടിഎൽഎസും ഉപയോഗിച്ച് സൃഷ്ടിക്കും അടിസ്ഥാനപരമായി അത് ഇവിടെ ഇരിക്കുന്നു ട്രാൻസ്പോർട്ട് ലെയറിൽ നിങ്ങൾക്ക് സുരക്ഷിതമായ ആശയവിനിമയം പൂർണ്ണമായും നൽകുന്നു നിങ്ങൾ സുരക്ഷിതമായ ആശയവിനിമയം നടത്തുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ഇപ്പോൾ മുതൽ https ഉപയോഗിക്കുന്നു http കണക്ഷൻ സ്ഥാപിക്കുന്നതിൽ ടിഎൽഎസ് വലിയ പങ്കുവഹിക്കുന്നുവെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു യുഡിപിക്ക് ഇല്ലെന്ന് ഇതിനർത്ഥമില്ല അതിനാലാണ് ഞാൻ ഇവിടെ എഴുതിയത് ഡിടിഎൽഎസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ എന്താണ് ഓപ്പൺഎസ്എസ്എൽ ഇത് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ എന്തിനാണ് ഇത് നോക്കേണ്ടത് കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തും പ്രധാനമാണ് ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക അതിനാൽ ഞാൻ ഓപ്പൺഎസ്എസ്എൽ എഴുതാം ഓപ്പൺഎസ്എസ്എല്ലിനെ മനസിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങള്ക്ക് ഇപ്പോഴും ഓര്മിക്കാവുന്ന ഒരു ചിത്രം ഞാൻ ഇടും അപ്പോൾ എന്താണ് ഓപ്പൺഎസ്എസ്എൽ ഓപ്പൺഎസ്എസ്എൽ ഒരു ബോക്സ് പോലെയാണ് അതിൽ ടൂൾ കിറ്റ് ഉണ്ട് ക്രിപ്റ്റോഗ്രാഫിക് ടൂൾകിറ്റാണ് ഓപ്പൺഎസ്എസ്എൽ അതിനാൽ ഈ ടൂൾ കിറ്റ് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കും ഓപ്പൺഎസ്എസ്എൽ ഒരു പ്രോട്ടോക്കോൾ അല്ലെന്നത് ശ്രദ്ധിക്കുക ഒരു പ്രോട്ടോക്കോൾ ഓപ്പൺഎസ്എസ്എൽ ഉപയോഗിച്ചേക്കാം പക്ഷേ ഓപ്പൺഎസ്എസ്എൽ ഒരു പ്രോട്ടോക്കോൾ അല്ല കാരണം ഓപ്പൺഎസ്എസ്എൽ പൂർണ്ണമായും ടൂൾകിറ്റ് ആണ് ഓപ്പൺഎസ്എസ്എല്ലിനെക്കുറിച്ച് എന്താണ് നല്ലത് ഇത് ഓപ്പൺ സോഴ്സാണ് അതിനാലാണ് ഇതിനെ ഓപ്പൺഎസ്എസ്എൽ എന്ന് വിളിക്കുന്നത് ഇത് ശക്തമായ വാണിജ്യ ഗ്രേഡ് പൂർണ്ണ സവിശേഷതയുള്ള ടൂൾകിറ്റ് നൽകുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ടിഎൽഎസ് ട്രാൻസ്പോർട്ട് ലെയർ സുരക്ഷയ്ക്കും സുരക്ഷിത സോക്കറ്റ്സ് ലെയർ എസ്എസ്എൽ പ്രോട്ടോക്കോളുകൾക്കുമായി ഒരു ടൂൾ കിറ്റ് നൽകുന്നു ഇവ പ്രോട്ടോക്കോളുകളാണ് അതാണ് പ്രധാന കാര്യം അതിനാൽ ഇത് ഒരു പൊതു ആവശ്യത്തിനുള്ള ക്രിപ്റ്റോഗ്രാഫിക് ലൈബ്രറി കൂടിയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരാളം കാണാൻ പറ്റും വാസ്തവത്തിൽ വളരെയധികം അപ്ഡേറ്റുകൾ ഉള്ള ഏറ്റവും സജീവമായ വെബ്സൈറ്റുകളിൽ ഒന്നാണിത് എന്തുകൊണ്ടാണ് ഓപ്പൺഎസ്എസ്എൽ ഞാൻ വരയ്ക്കാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇത് നൽകും ഒരു MQTT ക്ലയന്റ് എടുക്കുക MQTT ബ്രോക്കറിൽ കണക്റ്റുചെയ്യാൻ ആഗ്രഹിക്കുന്ന MQTT ക്ലയന്റ് ഇതാണ് ബ്രോക്കർ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി ബ്രോക്കറിന്റെ ഐപി വിലാസം ഇവിടെ വ്യക്തമാക്കും അതിനാൽ ഒരു ഉദാഹരണം എടുക്കുക 114 16 ഈ ക്ലയന്റിന്റെ ഐപി വിലാസവും 10 114 17 ബ്രോക്കറിന്റെ ഐപി വിലാസവുമാണ് ഞാൻ ഇതിന് ഒരു പേര് നൽകും nptel dot example dot MQTT ഇത് MQTT ബ്രോക്കറിന്റെ പേരാണെന്ന് നമുക്ക് പറയാം നമുക്ക് ഇതിന് ഒരു പേരും നൽകാം nptel dot example dot MQTT dot client ക്ലയന്റ് ബ്രോക്കറുമായി കണക്റ്റുചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഡിഎൻഎസ് ഐപി നെയിം അഡ്രസ് പരിഹരിക്കും ഈ പ്രത്യേക അഡ്ഡ്രസ്സിന്റെ മുഴുവൻ പേരും ഈ അഡ്ഡ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു അഡ്രസ് റെക്കോർഡുമുണ്ട് അതിനാൽ DNS അഡ്രസ് റെക്കോർഡ് ലഭ്യമാക്കുകയും അത് MQTT ക്ലയന്റിന് നൽകുകയും ക്ലയന്റ് അടിസ്ഥാനമാക്കി ഒരു കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇതിന് ഈ ഐപി വിലാസം ലഭിക്കും കാരണം അഡ്രസ് റെക്കോർഡ് യഥാർത്ഥത്തിൽ അഡ്രസ്സി ലേക്കുള്ള പേരിന്റെ മാപ്പിംഗ് നൽകും ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ക്ലയന്റ് എങ്ങനെയാണ് സെർവറിലേക്ക് കണക്റ്റുചെയ്യുന്നതെന്ന് ക്ലയന്റ് എങ്ങനെ ഉറപ്പാക്കുന്നു എങ്ങനെ സെർവറിലേക്ക് കണക്റ്റുചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 10 114 18 ഹൈജാക്ക് ചെയ്ത് ഒരു ഐപി വിലാസം നൽകുന്ന നടുക്ക് എന്തെങ്കിലുമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്ലയന്റ് ഇപ്പോൾ ആക്രമണകാരിയുമായി ബന്ധിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഡിഎൻഎസ് ഇഷ്യു ചെയ്യുമ്പോൾ ഈ ആക്രമണകാരി ശ്രദ്ധിക്കുകയും വേഗത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു ആക്രമണകാരി വളരെ ആക്രമണാത്മകമാണ് റിസോൾവർ ലഭ്യമാക്കുന്നതിനായി ഡിഎൻഎസ് അഭ്യർത്ഥന പുറപ്പെടുമ്പോൾ ബ്രോക്കർ പ്രതികരിക്കുന്നതിന് മുമ്പുതന്നെ ആക്രമണകാരി വരുന്നു അത് ഐപി നൽകുന്നു ഇത് തീർച്ചയായും ബ്രോക്കറാണെന്ന് MQTT ക്ലയന്റ് കരുതുകയും ആക്രമണകാരിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് ബ്രോക്കറാണെന്ന് കരുതി ബ്രോക്കറിനുപകരം ആക്രമണകാരിക്ക് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്നു എങ്ങനെയെങ്കിലും ഇത് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് കണ്ടെത്തി അതിനാൽ ഞങ്ങൾ എന്തിനാണ് ഡിഎൻഎസ് ഉപയോഗിക്കേണ്ടത് സുരക്ഷിത DNS ഉപയോഗിക്കുക ഇത് പ്രശ്നം പരിഹരിക്കും DNSsec എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം ക്ലയന്റ് റൂട്ടിൽ നിന്ന് MQTT വഴി അല്ലെങ്കിൽ ആക്ച്വൽ സെർവർ വഴി വരുന്ന സർട്ടിഫിക്കറ്റ് ഇത് നോക്കുന്നില്ല DNSsec ഇത് എല്ലാ തലത്തിലും മാച്ചിങ് ആണോ എന്ന് ക്രോസ്സ് ചെക്ക് ചെയ്യും ആ ഭാഗം അത് ചെയ്യും പക്ഷേ ആക്രമണകാരിക്ക് അതേ രീതിയിൽ പ്രതികരിക്കാനും കഴിയും ആക്രമണകാരി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു അത് DNSsec ഉപയോഗിച്ച് നിങ്ങൾ യഥാർത്ഥ ബ്രോക്കറുമായി ബന്ധിപ്പിക്കുന്നുണ്ടോയെന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല അത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല അതിനാൽ ആളുകൾ ഒരുതരം ഡിഎൻഎസ്സെക്ക് ഉപേക്ഷിക്കുകയും ഓപ്പൺ എസ്എസ്എല്ലിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിനാൽ ഓപ്പൺഎസ്എസ്എല്ലിലെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂൾകിറ്റായി മാറുന്നു അത് നിങ്ങൾ മനസിലാക്കുകയും MQTT യുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം ഞാൻ ഇപ്പോൾ എന്റെ ലാപ്ടോപ്പിലെ ഡെമോ മോഡിലേക്ക് മാറും കൂടാതെ ഒരു അവലോകനം നൽകുന്ന സെറ്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള നിരവധി ഡെമോകൾ നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം നിങ്ങളുടെ MQTT ബ്രോക്കറെ സുരക്ഷിതമാക്കാൻ അടിസ്ഥാനപരമായി 3 വഴികളുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ കാണിച്ചുതരാം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്തും സംബന്ധിച്ച എല്ലാ ക്രമീകരണങ്ങളും MQTT ബ്രോക്കറുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് ക്ലയന്റ് ഐഡി പ്രിഫിക്സ് ചെയ്യാൻ കഴിയും എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണിത് രണ്ടാമത്തെ കാര്യം ലളിതമായ ഓതെന്റികേഷൻ ആണ് അതിനർത്ഥം ഉപയോക്തൃനാമവും പാസ്വേഡും ഇടുക എന്നതാണ് മൂന്നാമത്തെ കാര്യം സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഓതെന്റികേഷനും സെഷനുകൾ സൃഷ്ടിക്കുന്നതിനും ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ക്ലയന്റിനും ബ്രോക്കറിനുമിടയിൽ അയയ്ക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡെമോ ആരംഭിക്കുന്നതിന് മുമ്പായി ഈ ചിത്രം മനസ്സിൽ വയ്ക്കുക അതിനാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ടൂൾകിറ്റ് ഓപ്പൺഎസ്എസ്എല്ലിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് 3 എന്റിറ്റികൾ നിർമ്മിക്കണം ഒന്നിനെ സർട്ടിഫിക്കറ്റ് ഓതറിറ്റ് എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് MQTT സെർവർ ആണ് പിന്നെ ക്ലയന്റ് ഞാൻ അർത്ഥമാക്കുന്നത് MQTT ക്ലയന്റ് എന്നാണ് കമാൻഡ് ലൈനിലെ ഈ ഓപ്പൺഎസ്എസ്എൽ കമാൻഡുകൾ ഈ 3 എന്റിറ്റികൾക്കുമായി ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം സൃഷ്ടിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ആവശ്യമുണ്ട് കാരണം സെർവർ കണക്റ്റുചെയ്യുന്നുണ്ടോ എന്നത് ശരിയായ സെർവറാണോ അല്ലയോ എന്ന് ക്ലയന്റിനെ സ്വതന്ത്രമായി അറിയിക്കും നിങ്ങൾ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചെങ്കിലും DNSsec ൽ നിങ്ങൾക്കെല്ലാം അറിയില്ല അത് യഥാർത്ഥത്തിൽ ആക്രമണകാരിയിൽ നിന്ന് വന്നതാകാം ഇവിടെ ഒരു സ്വതന്ത്ര സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഉണ്ട് അവർ നിങ്ങൾക്കായി എല്ലാം പരിശോധിക്കുകയും ക്ലയന്റിനെ സെർവറിലേക്ക് ബന്ധിപ്പിക്കാൻ അനുവദിക്കുകയും ക്ലയന്റിന് ശരിയായ സെർവറിലേക്ക് കണക്റ്റുചെയ്യുന്നുവെന്ന് സ്വയം തൃപ്തിപ്പെടുത്തുകയും ചെയ്യും ഓപ്ഷണലാണെങ്കിലും ശരിയായ ക്ലയന്റിലേക്ക് കണക്റ്റുചെയ്യുന്നുണ്ടോയെന്ന് സെർവറും പരിശോധിക്കാൻ താൽപ്പര്യമുണ്ടാകാം പക്ഷേ സ്വതന്ത്രമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ അത് ഇപ്പോഴും ഓപ്ഷണലാണ് അതിനാൽ ഇവ അവശ്യ ഘടകങ്ങളാണ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഉണ്ട് തുടർന്ന് ഇത് ഒരു സെർവറും ക്ലയന്റും ആണ് അതിനാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്ന് ഇപ്പോൾ നോക്കാം കൂടാതെ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഈ മുഴുവൻ സിസ്റ്റവും യഥാർത്ഥത്തിൽ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ അവയിൽ ചിലത് നോക്കാം അതിനാൽ ലാപ്ടോപ്പിലെ ഡെമോ കാണാം നമ്മൾ മോസ്ക്വിറ്റോ ഉപയോഗിക്കുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ബ്രോക്കറും പഹോയുമാണ് mosquitto സെർവർ എല്ലാ പരിഷ്കാരങ്ങളും mosquitto dot conf ലേക്ക് ചെയ്യുന്നു ഈ ഫയലിന്റെ പേര് ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഡെമോകളുടെ ക്രമം ക്ലയന്റ് ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആരംഭിക്കും തുടർന്ന് ബ്രോക്കർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയുള്ള സുരക്ഷാ കോൺഫിഗറേഷൻ ചെയ്യും അതിനാൽ ആദ്യത്തേതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഋ ഇപ്പോൾ നിങ്ങൾ ഒരു ഐഡി ഉപയോഗിച്ച് പ്രസിദ്ധീകരിക്കുന്നു അതിനെ സി 1 സെൻസർ എന്ന് വിളിക്കുന്നു വിഷയം MQTT ആണ് സന്ദേശം ഹലോ അതിനാൽ ഇതിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇത് വിജയകരമായി ചെയ്തുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലയന്റ് പ്രിഫിക്സ് നീക്കംചെയ്ത് വീണ്ടും പ്രക്ഷേപണം ചെയ്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് conf ക്ലയന്റ് പ്രിഫിക്സിൽ കോൺഫിഗർ ചെയ്യുക അതിനാൽ നമുക്ക് ആ ഫയൽ തുറന്ന് ആ ഫയലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ക്ലയന്റ് പ്രിഫിക്സ് സി 1 ലേക്ക് കഴ്സർ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അതിനർത്ഥം ഇതിന് സി 1 നോക്കേണ്ടിവരും ഇത് ഏറ്റവും ലളിതമായ കാര്യമാണ് പക്ഷേ അത് സുരക്ഷിതമായി സൂക്ഷിക്കണം ഇത് ഡെമോയുടെ ആദ്യ ഭാഗമാണ് പാസ്വേഡുകളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം തുടർന്ന് നിങ്ങൾ പാസ്വേഡുകളിലേക്ക് പോകണം അത് വിജയിച്ചില്ലെങ്കിൽ പറയുക തുടർന്ന് നമ്മൾ ഒരു പാസ്വേഡ് ഫയൽ സൃഷ്ടിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അതിനെ പാസ്വേഡ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് വിളിക്കുകയും അവിടെ നിങ്ങൾ പാസ്വേഡ് പരാമർശിക്കുകയും വേണം അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ mosquitto conf പരിഷ്ക്കരിക്കുന്നു ഞങ്ങൾ അതേ കാര്യം തന്നെ തുടരുന്നു മോസ്ക്വിറ്റോ പബ് മൈനസ് പ്രിഫിക്സ് c1 ഉം വിഷയം MQTT ഉം സന്ദേശം ഹലോയുമാണ് നിങ്ങൾക്ക് ഉപയോക്തൃനാമമുണ്ട് അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ തെറ്റായ പാസ്വേഡ് ഇവിടെ ഇടാം അതിനാൽ ഇത് കണക്ഷൻ നിരസിച്ചതായി നിങ്ങൾക്ക് കാണാം അതിനാൽ നിങ്ങൾ mosquitto conf ഫയലിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴെല്ലാം പ്രധാനം ഡെമോ നിർത്തി ഡെമോ പുനരാരംഭിക്കുക എന്നതാണ് കോൺഫിഗറേഷൻ ഫയൽ പരിഷ്ക്കരിക്കുമ്പോഴെല്ലാം നിങ്ങൾ പുനരാരംഭിക്കണം ഇപ്പോൾ ഈ conf ഫയലിലേക്ക് തിരികെ പോയി ഈ 3 ക്രമീകരണങ്ങളും നോക്കുക നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അടിസ്ഥാനപരമായി ആദ്യത്തേത് ca സർട്ടിഫിക്കറ്റാണ് രണ്ടാമത്തേത് സെർവർ സർട്ടിഫിക്കറ്റും മൂന്നാമത്തേത് സെർവർ കീയുമാണ് ലിസണർ പോർട്ട് 1883 ആണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ സൃഷ്ടിച്ചു ഇത് പുനരാരംഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ ശരിയായ പാസ്വേഡും ശരിയായ ഉപയോക്തൃനാമവും ca സർട്ടിഫിക്കറ്റും ഇടാൻ തുടങ്ങും പോർട്ട് 1883 ആണ് ഇത് മികച്ചതാണ് ഇത് ടിഎൽഎസ് ഉപയോഗിക്കുന്നു മാത്രമല്ല ഇതിന് പൂർണ്ണ സുരക്ഷ പ്രാപ്തമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലയന്റ് ഐഡി പ്രിഫിക്സ് ഉണ്ട് നിങ്ങൾക്ക് പാസ്വേഡുകൾ ഉണ്ട് കൂടാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനാൽ ടിഎൽഎസ് മാത്രം പൂർണ്ണമായും പ്രവർത്തിക്കുന്നു നമുക്ക് ca സർട്ടിഫിക്കറ്റ് നീക്കംചെയ്യാം അല്ലെങ്കിൽ തെറ്റായ പാത നൽകാം അത് കണക്റ്റുചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ചുരുക്കത്തിൽ ഈ ഘട്ടങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ MQTT പ്രോട്ടോക്കോളിനായി സാധ്യമായ ഏറ്റവും ഉയർന്ന സുരക്ഷ യഥാർത്ഥത്തിൽ പ്രാപ്തമാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഇപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം വളരെ നിയന്ത്രിത ഉപകരണങ്ങളിൽ ഞാൻ ഇതെല്ലാം എങ്ങനെ നടപ്പാക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ മൈക്രോകൺട്രോളറുകളാണ് ഹാർഡ്വെയറിൽ നടപ്പിലാക്കിയ A S പോലുള്ള സിമെട്രിക് കീ എൻക്രിപ്ഷൻ എൻക്രിപ്റ്റ് ചെയ്യാൻ അവർ നിങ്ങളെ അനുവദിക്കും അതിനാൽ നിർമ്മാണ വേളയിൽ തന്നെ നിങ്ങൾ കീ ഇടുക തുടർന്ന് ബൂട്ട്സ്ട്രാപ്പ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ആ കീ മാറ്റുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഉണ്ടായിരിക്കണം അത് സാധ്യമാണ് ഇത് ചെയ്യുന്നതിനുള്ള വളരെ പ്രധാന മാർഗങ്ങളാണിവ അതിനാൽ MQTT Sclients പോലുള്ള നിയന്ത്രിത ഉപകരണങ്ങളിൽ ഇത് ഉറപ്പാക്കുന്നതിന് ഡീഫോൾട് കീ മാറ്റുന്നതിനായി ലുക്ക്അപ്പ് ബൂട്ട് സ്ട്രാപ്പിംഗ് ടെക്നിക്കുകൾ ചെയ്യുക അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഡാറ്റാ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന ഹാൻഡ്ഷേക്ക് ഉണ്ട് ടിഎൽഎസ് ഒരു വലിയ ഹാൻഡ്ഷേക്ക് പ്രോട്ടോക്കോൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം ഈ സർട്ടിഫിക്കറ്റ് ക്ലയൻറ് പരിശോധിച്ചുറപ്പിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് കണക്റ്റുചെയ്യാനാകുമെന്ന് പറയുന്നു അതിനർത്ഥം ഒരു ഹാൻഡ്ഷേക്ക് നടന്നിരിക്കുന്നു ഓരോ തവണയും നിങ്ങൾ ടിഎൽഎസ് പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ബ്രോക്കറും ക്ലയന്റും തമ്മിൽ ധാരാളം ഡാറ്റ കൈമാറുന്നു അതിനാൽ MQTT ൽ ഓപ്ഷനുകൾ ഉണ്ട് അത് നിങ്ങളെ ഒരു തവണ ചെയ്യാൻ അനുവദിക്കും സെഷൻ കീ നിങ്ങൾക്കൊപ്പം ശാശ്വതമായി സൂക്ഷിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഹാൻഡ്ഷേക്ക് നടത്തുകയും തുടർന്നുള്ള എല്ലാ പ്രക്ഷേപണങ്ങൾക്കും സെഷൻ കീ ഉപയോഗിക്കുക അതിനാൽ ഈ ആവേശകരമായ IoT പ്രോട്ടോക്കോളിന്റെ കഴിവ് പൂർണ്ണമായും മനസിലാക്കാൻ MQTT സവിശേഷതയിലെ സുരക്ഷയെക്കുറിച്ചുള്ള അധ്യായം വായിക്കുക